അതിനാൽ ഇപ്പോൾ അടിസ്ഥാന ഫംഗ്ഷനുകളുടെ തരങ്ങൾ ചർച്ച ചെയ്ത ശേഷം ഈ രീതി കൂടുതൽ വിശദമായി മനസിലാക്കാൻ ഞങ്ങൾ ശ്രമിക്കും ഏറ്റവും ലളിതമായ ഉദാഹരണം 1D ഉദാഹരണമാണ് ശരി അതിനാൽ സമവാക്യങ്ങൾ സജ്ജീകരിക്കുന്നത് എങ്ങനെയെന്ന് ഞങ്ങൾക്കറിയാം അതിനെ ഒരു ദുർബലമായ രൂപത്തിലേക്ക് പരിവർത്തനം ചെയ്യുക അത് FEM ന് വളരെ സ്വഭാവ സവിശേഷതയാണ് അത് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറയും തുടർന്ന് ഞങ്ങൾ അത് എങ്ങനെ പരിഹരിക്കും അതിനാൽ സമവാക്യ സജ്ജീകരണം ഇപ്പോൾ ഇവിടെയുള്ള ബോർഡിൽ ഞാൻ വളരെ സാധാരണമായ ഡിഫറൻഷ്യൽ സമവാക്യം എഴുതിയിട്ടുണ്ട് അതിനാൽ ഈ ഡിഫറൻഷ്യൽ സമവാക്യത്തിൽ നിങ്ങൾ കണ്ടെത്താനാഗ്രഹിക്കുന്നവയാണ് ഇപ്പോൾ തുടങ്ങാൻ ഞാൻ എന്തിനാണ് ഇതുപോലുള്ള ഡിഫറൻഷ്യൽ സമവാക്യം തിരഞ്ഞെടുത്തത് അതിനാൽ നിങ്ങളുടെ ഗണിത കോഴ്സുകളിൽ നിന്ന് ഓർക്കുന്നവരിൽ ഒന്നാമതായി ഈ ഡിഫറൻഷ്യൽ സമവാക്യം നിങ്ങൾ ഓർക്കുന്നുണ്ടെങ്കിൽ സ്റ്റർം ലിയോവില്ലെ ഡിഫറൻഷ്യൽ സമവാക്യവുമായി വളരെ സാമ്യമുള്ളതാണ് ആ സമവാക്യത്തിൽ ചില അധിക പദങ്ങൾ ഇവിടെ അവസാനിച്ചിട്ടില്ല എന്നാൽ ഇടതുവശത്തെ ഘടന സമാനമായി കാണപ്പെടുന്നുവെന്നാണ് ഞാൻ അർത്ഥമാക്കുന്നത് അതിന്റെ ശക്തി ഈ ജനറിക് ഫോമിൽ ഏത് രണ്ടാം ക്രമ ഡിഫറൻഷ്യൽ സമവാക്യവും പ്രകടിപ്പിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു എന്നതാണ് ശരി അതിനാൽ ഞങ്ങൾ എടുക്കും അതായത് ഞാൻ നിങ്ങൾക്ക് രണ്ട് ഉദാഹരണങ്ങൾ കാണിക്കും അതിനാൽ ഉദാഹരണത്തിന് സമാന്തര പ്ലേറ്റ് കപ്പാസിറ്റർ ഒരു ഡിസി പ്രശ്നം അതിനാൽ ഒരു ഡിസി പ്രശ്നത്തിന് നിങ്ങൾക്ക് ചാർജ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഡിസി പ്രശ്നമായ വോൾട്ടേജ് കണ്ടെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അതിനാൽ അതിനെ ഏത് സമവാക്യം എന്നും വിളിക്കുന്നു ഒരു ചാർജ് നൽകി എല്ലായിടത്തും സാധ്യതകൾ കണ്ടെത്തുക സ്ഥിതിവിവരക്കണക്ക് ലാപ്ലേസ് സമവാക്യം ശരിയാണ് അത് നിങ്ങളുടെ അവകാശമായിരുന്നു അതിനാൽ ഈ സമാന്തര പ്ലേറ്റ് കപ്പാസിറ്റർ നിങ്ങൾക്ക് രണ്ട് ദിശകളിലും ഒരു കപ്പാസിറ്റർ അനന്തമായ കപ്പാസിറ്റർ ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം ഇത് നമുക്ക് ഒരു ഗ്രൌണ്ടഡ് എന്ന് പറയാം ഇത് പോലെയുള്ള പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില വോൾട്ടേജ് ഇതാണ് അതിനാൽ ഇവിടെ പറയൂ ഇതാണ് നിങ്ങളുടെ x മികച്ചതും സാധ്യതയുള്ളതും ഈ ഘട്ടത്തിലെ സാധ്യതകളെക്കുറിച്ച് അതിനാൽ 0 ആയിരിക്കും അതിന്റെ ഒരു ഗ്രൌണ്ടഡ് പ്ലേറ്റ് മുകളിലെ പ്ലേറ്റ് കുറച്ച് വോൾട്ടേജിൽ നിലനിർത്തുന്നു ഞാൻ കപ്പാസിറ്ററിലൂടെ പോകുമ്പോൾ പൊട്ടൻഷ്യൽ എങ്ങനെ വ്യത്യാസപ്പെടുന്നുവെന്ന് നിങ്ങൾ കണ്ടെത്തണം അതാണ് നിങ്ങൾ ശരിയായി കണക്കാക്കാൻ ആഗ്രഹിക്കുന്ന ഒന്ന് അതിനാൽ ഡിഫറൻഷ്യൽ സമവാക്യം ഇതാണ് എന്ന് എനിക്കറിയാം അതിനാൽ എനിക്ക് ഈ ജനറിക് ഫോമിലേക്ക് യോജിക്കാൻ കഴിയുമോ എനിക്ക് ശരിയാക്കാം അതിനാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഉദാഹരണത്തിന് മൂല്യം എന്തായിരിക്കും വിദ്യാർത്ഥി ആയിരിക്കും ആയിരിക്കും വിദ്യാർത്ഥി 0 വിദ്യാർത്ഥി 0 അതിനാൽ ഈ ജനറിക് ലുക്കിംഗ് സമവാക്യത്തിന് വൈദ്യുതകാന്തികത്തിൽ ധാരാളം പ്രശ്നങ്ങൾ ക്യാപ്ചർ ചെയ്യാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പുതിയതായി ഒന്നുമില്ല അതിനാലാണ് ഞങ്ങൾ അത് ശരിയാണെന്ന് നോക്കുന്നത് അപ്പോൾ നിങ്ങൾ മറ്റൊരു പ്രശ്നം ഞാൻ എടുക്കുന്ന രണ്ടാമത്തെ പ്രശ്നം അതിനാൽ ഒന്ന് സമാന്തര പ്ലേറ്റ് ആയിരുന്നു മറ്റൊന്ന് സമാന്തര പ്ലേറ്റുകൾക്കിടയിലുള്ള തരംഗത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം ഇതിനുള്ള സമവാക്യം നിങ്ങൾ ഇതിനകം പഠിച്ചിട്ടുണ്ട് ഇത് ഹെൽംഹോൾട്ട്സ് സമവാക്യമാണ് ഒരു തരംഗ സമവാക്യം ഹെൽംഹോൾട്ട്സ് സമവാക്യമാണ് ഹെൽംഹോൾട്ട്സ് സമവാക്യം നിങ്ങൾക്ക് അറിയാവുന്നത് പോലെയാണെന്ന് ഞങ്ങൾക്കറിയാം എന്തിന് തുല്യമാണ് ചില സ്ഥിരമായ സമയങ്ങളിൽ ഈ സമവാക്യം നമ്മൾ പലതവണ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ സമവാക്യം ഈ രൂപത്തിൽ എനിക്ക് എങ്ങനെ ലഭിക്കും വിദ്യാർത്ഥി പി സ്ക്വയർ അതിനാൽ യഥാർത്ഥത്തിൽ ഇത് സജ്ജീകരിക്കാൻ പ്രലോഭിപ്പിക്കും പക്ഷേ ഓർമ്മിക്കുക സ്ഥിരതകളാകേണ്ടതില്ല സ്ഥിരമായി ശരിയായിരിക്കേണ്ടതില്ല അതിനാൽ മാക്സ്വെല്ലിന്റെ സമവാക്യങ്ങളിൽ നിന്ന് ഒഴിവാക്കൽ ഉപയോഗിക്കുന്നതിന് ഞങ്ങൾ ചെയ്യേണ്ട അതേ തന്ത്രം ഞങ്ങൾ ശരിയാക്കേണ്ടതുണ്ട് അതിനാൽ ഇത് യഥാർത്ഥത്തിൽ ആയിരിക്കും അതിനാൽ ആദ്യ ടേം ഇതുപോലെയാകും രണ്ടാം ടേം അതിനാൽ എന്റെതായിരുന്നു ഇത് എന്റെതായിരുന്നു അതിനാൽ ഇത് ഒരു പൊതു ഡിഫറൻഷ്യൽ സമവാക്യമാണ് ഇത് വളരെ നേരായ രീതിയിൽ പലതവണ ഉപയോഗിക്കുന്നു ഒരു കാര്യം അതിർത്തി വ്യവസ്ഥകൾ ഉണ്ട് അവ അനുസരിക്കുകയും ബഹുമാനിക്കുകയും വേണം അത് എങ്ങനെ പോകുന്നുവെന്ന് ഞങ്ങൾ കാണും അതിനാൽ ഇപ്പോൾ നമുക്ക് ഇത് FEM ചട്ടക്കൂടിൽ ഉൾപ്പെടുത്താം അതിനാൽ ഞങ്ങൾ പറഞ്ഞ മറ്റൊരു വാക്ക് FEM എന്നത് വെയ്റ്റഡ് റെസിഡൽ രീതി ശരിയാണ് അതിനാൽ ഒന്നാമതായി വെയ്റ്റഡ് അവശിഷ്ടങ്ങൾക്കായി ഞാൻ അവശിഷ്ടങ്ങൾ നിർവചിക്കേണ്ടതുണ്ട് അതിനാൽ ഇത് എന്റെ ഡിഫറൻഷ്യൽ സമവാക്യമായിരുന്നു അപ്പോൾ അവശേഷിക്കുന്നത് എന്താണ് ഇടത് വശം മൈനസ് വലത് വശം ബാക്കിയുള്ളത് എന്ന് വിളിക്കുന്നു അതിനാൽ ഈ അവശിഷ്ടം ഇടത് വശം മൈനസ് വലത് വശം എന്ന് നിർവചിച്ചിരിക്കുന്നു തുടർന്ന് ഞാൻ എന്താണ് ചെയ്യേണ്ടത് വെയ്റ്റഡ് ശേഷിക്കുന്ന രീതി അതിനാൽ എനിക്ക് ചില വെയ്റ്റിംഗ് ഫംഗ്ഷന്റെ ഇന്റഗ്രൽ എടുക്കണം ഞാൻ അതിനെ വിളിക്കുകയും അത് 0 ന് തുല്യമായി സജ്ജമാക്കുകയും ചെയ്യും അത് വെയ്റ്റഡ് റെസിഷ്യൽ രീതി ശരിയാകും അതിനാൽ മുമ്പ് ഞാൻ ഇതിനെ അടിസ്ഥാന ഫംഗ്ഷൻ എന്ന് വിളിച്ചിരുന്നു ഞാൻ ഇതിനെ W എന്ന് വിളിക്കുന്നു കാരണം W എന്നത് വെയ്റ്റഡ് ഓകെ എന്ന വാക്കിൽ നിന്നാണ് വരുന്നത് അതിനാൽ W വേണ്ടി അതിനാൽ ഇത് നിങ്ങളുടെ ഭാരം ഫംഗ്ഷൻ അല്ലെങ്കിൽ അടിസ്ഥാന പ്രവർത്തനം അല്ലെങ്കിൽ ടെസ്റ്റിംഗ് ഫംഗ്ഷൻ ആണ് ട്രയൽ ഫംഗ്ഷൻ നിങ്ങൾ കണ്ടെത്തും എന്നതാണ് മറ്റൊരു വാക്ക് ഇതിനായി ഉപയോഗിച്ചിരിക്കുന്ന വ്യത്യസ്ത പദങ്ങളെല്ലാം ഇവയാണ് എല്ലാവരും അതിനായി അവരവരുടെ സ്വന്തം വാക്ക് കൊണ്ടുവരുന്നു എല്ലാവരും ഒരേ കാര്യം തന്നെയാണ് അർത്ഥമാക്കുന്നത് സംയോജനത്തിന്റെ ഡൊമെയ്ൻ എന്താണ് എന്നതിന്റെ പിന്തുണയാണ് ഉദാഹരണത്തിന് 1 ഡി കേസിൽ നിങ്ങൾക്കറിയാം വിദ്യാർത്ഥി സെഗ്മെന്റ് അതിനാൽ ഒരു നോഡല്ല അത് mth സെഗ്മെന്റിന്റെ വലതുവശത്തുള്ള സെഗ്മെന്റിൽ നിർവചിച്ചിരിക്കുന്ന പ്രവർത്തനമാണ് അതിനാൽ ഇതൊരു ഫംഗ്ഷനാണ് അതിനാൽ ഒരു സെഗ്മെന്റിനുള്ളിൽ പൂജ്യമല്ല അതിന് പുറത്ത് മറ്റെല്ലായിടത്തും പൂജ്യമാണ് അങ്ങനെയാണ് ഇത് ശരിയെന്ന് തോന്നുന്നു അതിനാൽ നമുക്ക് ഇത് കുറച്ചുകൂടി നന്നായി ദൃശ്യവൽക്കരിക്കാം അതിനാൽ ഇതൊരു 1 ഡി പ്രശ്നമാണ് അതിനാൽ ഞാൻ വര വരയ്ക്കണം ഫംഗ്ഷനുകൾ ശരിയായി രൂപപ്പെടുത്തണം W ആകാര ഫംഗ്ഷനുകൾ ആകും കാരണം നമ്മൾ ചെയ്യുന്നത് എന്തുകൊണ്ട് അടിസ്ഥാന പ്രവർത്തനങ്ങളും ടെസ്റ്റിംഗ് ഫംഗ്ഷനും ഒരേ പോലെയുള്ള ഗലേർകിന്റെ രീതി എന്ന് വിളിക്കപ്പെടുന്നതാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് അതിനാൽ നമുക്ക് ഇവയെ ഇങ്ങനെ വിളിക്കാം അതിനാൽ ഇത് എന്റെ അവകാശമാണ് അതിനാൽ ഇപ്പോൾ ഇവിടെയുള്ള അജ്ഞാതരെ ഞാൻ ശരിയാണെന്ന് വിളിക്കാം അങ്ങനെ ഉണ്ട് അങ്ങനെ ഒന്ന് ശരിയാണ് അതിനാൽ നിങ്ങൾക്കറിയാവുന്ന അജ്ഞാതമായ ശരിയുടെ ആഗോള നാമം ഞാൻ വിളിക്കും അതിനാൽ നിരവധി നോഡുകൾ ഓരോന്നിനും n നോഡുകൾ ഉണ്ടെങ്കിൽ അവ ഓരോന്നും അജ്ഞാതമാണ് ഇപ്പോൾ പ്രാദേശിക പേരുകളുടെ കാര്യത്തിൽ എനിക്ക് അതിനെ പ്രാദേശിക പേരുകൾ എന്ന് വിളിക്കാം അതിനാൽ ഉദാഹരണത്തിന് ഇത് ശരിയാണെങ്കിൽ അതിനാൽ ഞാൻ ഇതിനെ ഇവിടെ യു എന്ന് വിളിക്കും അതിനാൽ ഞാൻ ഈ സെഗ്മെന്റിനെയോ ഈ സെഗ്മെന്റിനെയോ റഫർ ചെയ്യുന്നു അതിനാൽ എനിക്ക് ഇതുപോലെ പരാമർശിക്കാൻ കഴിയുമോ അതിനാൽ സൂപ്പർ സ്ക്രിപ്റ്റ് ആണ് അതിനാൽ ഓരോ മൂലകത്തിനും രണ്ട് അജ്ഞാതങ്ങളുണ്ട് ഇടത് നോഡ് മൂല്യവും വലത് നോഡ് മൂല്യവും ഇടത് നോഡ് മൂല്യത്തെ ഞാൻ 1 വലത് നോഡ് മൂല്യം എന്ന് വിളിച്ചു അപ്പോൾ അതിന്റെ e എന്നത് 1 ന് തുല്യമാണ് e എന്നത് 1 ന് തുല്യമാണ് ഇത് ഇടത്തോ വലത്തോ നോഡിലുള്ള ഈ വ്യക്തിയാണോ വിദ്യാർത്ഥി വലത് നോഡാണ് എനിക്ക് ഇതിനെ വിളിക്കാം ഇതിൽ ഇടത് നോഡാണോ വലത് നോഡാണോ ഞാൻ ഇതിനെ എന്ത് വിളിക്കും വിദ്യാർത്ഥി ഇടത് നോഡ് ഇടത് നോഡ് ഇത് സബ്സ്ക്രിപ്റ്റ് മൂല്യം ക്ഷമിക്കുന്നതിന് തുല്യമാണ് അതിനാൽ ഒരേ അജ്ഞാതനെ മൂന്ന് വ്യത്യസ്ത പേരുകളിൽ വിളിക്കുന്നു ഇത് ചെയ്യുന്നത് അനാവശ്യമാണെന്ന് തോന്നാം പക്ഷേ ഇത് യഥാർത്ഥത്തിൽ കോഡിംഗിൽ വളരെ സഹായകരമാണ് കാരണം നിങ്ങൾക്ക് ഒരു പ്രാദേശിക നാമകരണ കൺവെൻഷനുണ്ട് തുടർന്ന് നിങ്ങൾക്ക് ആഗോള നാമകരണത്തിലേക്ക് മാപ്പിംഗ് ഉണ്ട് കൺവെൻഷൻ മൂന്ന് നോഡുകൾ നാല് നോഡുകൾ എന്നറിയാൻ ഞാൻ പേനയിലും പേപ്പറിലും ഇത് ചെയ്യുമ്പോൾ അത് വളരെ അനാവശ്യമാണെന്ന് തോന്നുന്നു പക്ഷേ ദശലക്ഷക്കണക്കിന് ഘടകങ്ങൾക്ക് പ്രവർത്തിക്കുന്ന ഒരു കോഡ് നിങ്ങൾ എഴുതുമ്പോൾ അത് വളരെ അത്യാവശ്യമാണ് അതിനാൽ ഇത് ആദ്യം അൽപ്പം മണ്ടത്തരമായി കാണപ്പെടും അതിനാൽ എന്തുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങൾക്ക് ഇതെല്ലാം ഉള്ളത് പക്ഷേ നിങ്ങളുടെ സിസ്റ്റം വ്യവസ്ഥാപിതമായി രൂപപ്പെടുത്തുന്നതിന് ഇത് വളരെ സഹായകരമാണ് അതായത് നിങ്ങളുടെ സമവാക്യങ്ങൾ രൂപപ്പെടുത്തുക വിദ്യാർത്ഥി പക്ഷേ അത് എന്തുകൊണ്ട് എന്നതാണ് ഞാൻ അതിന് നൽകുന്ന ആഗോള നാമം വിദ്യാർത്ഥി അത് കൊള്ളാം അതിനാൽ ഇതൊരു പ്രാദേശിക നാമം മാത്രമാണ് വിദ്യാർത്ഥി ഉണ്ട് വിദ്യാർത്ഥിAt വേണ്ട രണ്ടും മതി ഇത് രണ്ടും ഇടത്തേയോ വലത്തേയോ ആണ് സൂചിപ്പിക്കുന്നത് വിദ്യാർത്ഥി അത് ഇത് ആഗോള സംഖ്യയെ സൂചിപ്പിക്കുന്നു വിദ്യാർത്ഥി ആ സബ്സ്ക്രിപ്റ്റ് ഇതാണ് അതാണ് ഇവിടെയുള്ള സബ്സ്ക്രിപ്റ്റ് രണ്ട് മുകളിൽ ഒരു മൂലകവും ഇല്ലെങ്കിൽ അത് ആഗോള സംഖ്യയെ സൂചിപ്പിക്കുന്നു എത്ര നോഡുകൾ ഉണ്ട് മൂന്ന് നോഡുകൾ എന്നാൽ ഞാൻ പ്രാദേശികമായി ഉള്ളിൽ പരാമർശിക്കുകയാണെങ്കിൽ ഇത് l അല്ലെങ്കിൽ r യെ സൂചിപ്പിക്കുന്നു അതിനാൽ നല്ലത് വിദ്യാർത്ഥി ഉണ്ട് അതെ എനിക്ക് 10000 ഘടകങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ അവയെ അക്കമിട്ട് നിരത്തേണ്ടി വരും എന്നാൽ ഞാൻ മൂലകങ്ങളുടെ ഒരു ലിസ്റ്റ് സൂക്ഷിക്കുകയാണെങ്കിൽ ഓരോ മൂലകത്തിലും രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് എഴുതാം എന്നാൽ നിങ്ങൾ കോഡ് ചെയ്ത വലത്തേക്ക് പോകുമ്പോൾ ശരിയാണ് ഒരു അറേയുടെ സ്വാഭാവിക സൂചികകൾ അതിനാൽ ഇത് ഇടത്തോട്ടോ വലത്തോട്ടോ മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യമാണ് അതിനാൽ ഇവയാണ് പ്രാദേശികവും ആഗോളവും തമ്മിലുള്ള ഈ മാപ്പിംഗ് ശരിയായി നിലനിർത്തേണ്ടത് അതിനാൽ സാധാരണയായി ഈ മാപ്പിംഗ് നിലനിർത്താൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ചില ഡാറ്റാ ഘടനയുണ്ട് അപ്പോൾ ഈ മാപ്പിംഗ് എന്താണ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എനിക്ക് ഗ്ലോബൽ നമ്പർ നൽകിയാൽ നിങ്ങൾക്ക് പ്രാദേശിക സംഖ്യകൾ ഏതൊക്കെയാണെന്ന് എന്നോട് പറയാനാകും നിങ്ങൾ എനിക്ക് പ്രാദേശിക നമ്പറുകൾ നൽകിയാൽ ഒരു മാപ്പിംഗ് ഉണ്ട് അത് പോയി ഗ്ലോബൽ നമ്പർ പറയും അതിനാൽ നിങ്ങളുടെ കോഡ് നടപ്പിലാക്കുമ്പോൾ ഇവ നടപ്പിലാക്കൽ പ്രശ്നങ്ങളാണ് നിങ്ങൾക്ക് ഈ പ്രവർത്തനം ഉണ്ടായിരിക്കണം അതിനാൽ ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഈ W OK തിരഞ്ഞെടുക്കുന്നതിനെക്കുറിച്ച് അതിനാൽ ഇവിടെ ഞങ്ങൾ ആവശ്യങ്ങളൊന്നും ചുമത്തിയിട്ടില്ല അതിനാൽ ഞാൻ സംസാരിച്ചത് വെയ്റ്റഡ് അവശിഷ്ട രീതിയെക്കുറിച്ചാണ് ശരി ആവശ്യകതകൾ എന്താണെന്ന് ഞാൻ ചുരുക്കമായി സൂചിപ്പിക്കാം ഉദാഹരണത്തിന് എന്തും ആകാം Wm ഒരു പൾസ് ബേസ് ഫംഗ്ഷൻ ആയിരിക്കുമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ശരിയാണോ അതിനാൽ കുറഞ്ഞത് രണ്ട് ആവശ്യകതകൾ ഉണ്ട് അതിനാൽ ആവശ്യകതകൾ അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചതും അതിന്റെ ഡെറിവേറ്റീവും ഡൊമെയ്നിൽ സമന്വയിപ്പിക്കാവുന്ന ചതുരമായിരിക്കണം അതിനാൽ യു എന്നതിലും അതിന്റെ ഡെറിവേറ്റീവിലും രണ്ട് ആവശ്യകതകൾ ഇല്ല എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിനാൽ അത് സൂചിപ്പിക്കുന്നു അതിനാൽ എന്താണ് അതിനർത്ഥം അതിനാൽ ഉദാഹരണത്തിന് ഞാൻ അതിനെ ചതുരം എടുത്ത് ഞാൻ ഡെറിവേറ്റീവ് എടുക്കുകയാണെങ്കിൽ ഇത് ശരിയാക്കണം എന്തുകൊണ്ടാണ് ഇത് ആവശ്യമായി വരുന്നത് എന്നതിന്റെ വ്യുൽപ്പന്നത്തിലേക്ക് ഞങ്ങൾ പോകുന്നില്ല എന്നാൽ നിങ്ങൾക്ക് ഇത് ഒരു വസ്തുതയായി കണക്കാക്കാം വിദ്യാർത്ഥി തീർന്നില്ല പുറത്ത് 0 ആയിരിക്കുമെന്നതിനാൽ അത് അനുമാനിക്കപ്പെടുന്നു അതിനാൽ മുഴുവൻ ഡൊമെയ്നിനും വേണ്ടി ഞാൻ ഇത് എഴുതാം അതിനാൽ ഈ മുഴുവൻ ഡൊമെയ്നിലും ഈ W W ആയിരിക്കണം കൂടാതെ ഈ ഡെറിവേറ്റീവ് സമചതുര ഇന്റഗ്രബിൾ റൈറ്റ് ആയിരിക്കണം വിദ്യാർത്ഥി കാരണം അതിനാൽ കാരണം അതിനാൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ന്യായവാദത്തിലേക്ക് പോകുന്നില്ല പക്ഷേ ലോജിക് അതിന്റെ ഫ്യൂറിയർ സീരീസ് ഉപയോഗിച്ച് ഒരു ഫംഗ്ഷൻ പ്രതിനിധീകരിക്കുന്നതിന് സമാനമാണ് ചതുരാകൃതിയിലുള്ള സംയോജനത്തിന് അവ ആവശ്യമായ ഫംഗ്ഷൻ അങ്ങനെയെങ്കിൽ സമാനമായ ആശയം ഇത് തൃപ്തികരമാകുമ്പോൾ സമവാക്യങ്ങളുടെ FEM സിസ്റ്റം കർശനമായി പരിഹാരം നൽകുന്നുവെന്ന് തെളിയിക്കാൻ കഴിയും FEM നൽകുന്ന സമവാക്യങ്ങളുടെ സിസ്റ്റം ഈ ഗ്യാരന്റിക്ക് കീഴിലുള്ള ശരിയായ പരിഹാരത്തിലേക്ക് ഒത്തുചേരും ഇതുകൂടാതെ രണ്ട് നിബന്ധനകൾ ഉണ്ട് ഇതാണ് ആദ്യത്തെ ആവശ്യകത രണ്ടാമത്തേത് എളുപ്പമുള്ള ആവശ്യകതയാണ് അതായത് Wmx അതിർത്തി വ്യവസ്ഥകൾ പാലിക്കണം അതിനാൽ ഒരു ഉദാഹരണമായി പ്രശ്നത്തിന് ഡിറിച്ലെറ്റ് അതിർത്തി വ്യവസ്ഥകൾ ഉണ്ടെന്ന് കരുതുക അത് പറഞ്ഞു ഇവിടെയുള്ള അവസാന നോഡ് 0 ആണ് അതിനാൽ സൊല്യൂഷനിൽ ആയിരിക്കേണ്ട അതിർത്തി വ്യവസ്ഥയാണ് ഞാൻ നൽകുന്നത് എനിക്ക് പൾസ് അടിസ്ഥാന പ്രവർത്തനങ്ങൾ ഉപയോഗിക്കാമോ എനിക്ക് അർത്ഥമാക്കാൻ കഴിയില്ല കാരണം അടിസ്ഥാന ഫംഗ്ഷനുകൾ തന്നെ ഞാൻ അതിർത്തി വ്യവസ്ഥകളെ തൃപ്തിപ്പെടുത്തുന്നില്ല അതിനടുത്തായി 0 എന്ന ഭാരം അറ്റാച്ചുചെയ്യുന്നത് പോരാ പക്ഷേ അടിസ്ഥാന പ്രവർത്തനം തന്നെ അതിർത്തി വ്യവസ്ഥയെ തൃപ്തിപ്പെടുത്തുന്നില്ല മറുവശത്ത് എനിക്ക് പൂജ്യത്തിൽ നിന്ന് ആരംഭിക്കുന്ന ഒരു ത്രികോണമുണ്ടെങ്കിൽ കുഴപ്പമില്ല അതിനാൽ നമുക്ക് ഒരു ചെറിയ ഉദാഹരണം നൽകാം എന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രധാന ആവശ്യകതകൾ ഇവയാണ് സാധാരണയായി ഞങ്ങൾ ഉപയോഗിക്കുന്നത് പുതിയ അടിസ്ഥാന ഫംഗ്ഷനുകൾ നിർമ്മിക്കുന്ന ബിസിനസ്സിൽ ഞങ്ങൾ അല്ല അതിനാൽ ഞങ്ങൾ അറിയപ്പെടുന്ന അടിസ്ഥാന ഫംഗ്ഷനുകൾ ഉപയോഗിക്കാൻ പോകുന്നു ഈ ആവശ്യകതകൾ ഇതിനകം തൃപ്തികരമാണ് അവ പരിശോധിക്കാൻ ഞങ്ങൾ സമയം പാഴാക്കില്ല ഞങ്ങൾ അവ ഉപയോഗിക്കും 0 ശരിയാകാൻ ഞങ്ങൾ നിർബന്ധിക്കും അതിനാൽ മികച്ച രീതിയിൽ ആരംഭിക്കുന്നത് അടിസ്ഥാന പ്രവർത്തനത്തിന്റെ ബുദ്ധിപരമായ തിരഞ്ഞെടുപ്പല്ല അതിനാൽ ഈ ഘട്ടത്തിൽ ഞങ്ങൾ ഇതെല്ലാം ഏറ്റെടുക്കും അപ്പോൾ വ്യക്തമായി നിങ്ങൾ ആകാൻ ആഗ്രഹിക്കുന്നതെന്തും ആകാം ഗാലർ എന്നാൽ ടെസ്റ്റിംഗ് ഫംഗ്ഷൻ W ഉം U യുടെ അടിസ്ഥാന പ്രവർത്തനവും ഒന്നുതന്നെയാണ് എന്നാണ് അർത്ഥമാക്കുന്നത് അതിനാൽ അടിസ്ഥാനത്തിനും പരിശോധനയ്ക്കും ഞങ്ങൾ കണ്ടത് പോലെ നിങ്ങൾക്ക് ഒരു Lagrange interpolating polynomial എടുക്കാം വിദ്യാർത്ഥി അതെ അതിനാൽ അതിനായി ഈ വ്യവസ്ഥകൾ പാലിക്കുന്നു ഒരു ലഗ്രാഞ്ച് പോളിനോമിയലിന് അതെ അവ തൃപ്തികരമാണ്